ഇപ്പോൾ അടിസ്ഥാനകാര്യങ്ങൾ കണ്ടു നമ്മൾ ക്ലാസുകളും ഒബ്ജക്റ്റുകളും എങ്ങനെ നിർവചിക്കാം എന്ന് കണ്ടു ഇനി രസകരമായ ഒരു ഡാറ്റാ സ്ട്രക്ചർ നിർവചിക്കാം നമ്മളുടെ സ്വന്തം ലിസ്റ്റ് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക ഒരു ലിസ്റ്റ് അടിസ്ഥാനപരമായി നോഡുകളുടെ ഒരു കൂട്ടം ആണ് ആ ക്രമത്തിൽ ഓരോ നോഡും ഒരു വാല്യൂ സംഭരിക്കുന്നു തുടർന്ന് അടുത്ത നോഡിലേക്കു പോകുന്നു ലിസ്റ്റിലൂടെ കടന്നുപോകുന്നതിന് തുടക്കത്തിൽ തന്നെ ആരംഭിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഈ പോയിന്ററുകൾ പിന്തുടരുക അവസാന പോയിന്ററിൽ എത്തുന്നതുവരെ പൈത്തൺ നൊട്ടേഷനിൽ v1 v2 v3 v4 ഫോമിന്റെ ഒരു ലിസ്റ്റ് നമ്മളുടെ പക്കലുണ്ട് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത് പ്രതിനിധീകരിക്കപ്പെടുന്നതെന്ന് നമ്മൾ ഊഹിക്കുന്നു 4 നോഡുകൾ ഉണ്ട് ലിസ്റ്റ് l സെൽഫ് ഈ ലിസ്റ്റിലെ ആദ്യ നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നു വി 1 വി 2 ലേക്ക് വി 2 വി 3 ലേക്ക് വി 3 വി 4 ലേക്ക് എന്നിങ്ങനെ പോയിന്റ് ചെയ്യുന്നു അവസാന നോഡ് ഒന്നും സൂചിപ്പിക്കുന്നില്ല അത് ലിസ്റ്റിന്റെ അവസാനത്തിലെത്തി എന്ന് സൂചിപ്പിക്കുന്നു ഇതുപോലെ ശൂന്യമായ ലിസ്റ്റ് എങ്ങനെയിരിക്കും എന്ന് അനുമാനിക്കുന്നത് സ്വാഭാവികമാണ് ശൂന്യമായ ലിസ്റ്റിൽ മൂല്യവും അടുത്ത നോഡിലേക്കുള്ള പോയിന്ററുകൾ നൺ ആയി സജ്ജീകരിച്ചിരിക്കുന്നു അതേസമയം ഒരൊറ്റ നോഡ് അടങ്ങിയിരിക്കും സിംഗിൾട്ടൺ ഒരൊറ്റ നോഡ് ആയിരിക്കും അതിൽ നമുക്ക് v 1 എന്ന മൂല്യവും അടുത്ത സെറ്റ് ഒന്നുമില്ല എന്നുമായിരിക്കും ഒരു ലിസ്റ്റിന്റെ പ്രതിനിധ്യത്തിനായി നമ്മൾ പിന്തുടരുന്ന കൺവെൻഷനാണിത് ഒരൊറ്റ നോഡ് മാത്രമുള്ള ഒരു ശൂന്യമായ ലിസ്റ്റ് മാത്രമേ നൺ വാല്യൂ ഉണ്ടാകു ഒരു ലിസ്റ്റിലെ മറ്റേതൊരു നോഡിനും നൺ വാല്യൂ എന്ന് വരില്ല പരോക്ഷമായി ഊഹിക്കുന്ന ഒന്നാണിത് ഇത് നൺ വാല്യൂവിനെ പരിശോധിക്കുന്നത് ഇത് ഒരു ശൂന്യമായ ലിസ്റ്റ് ആണോയെന്ന് നമ്മളോട് പറയുന്നു ഒരു ലിസ്റ്റിന്റെ മധ്യത്തിൽ ഒരിക്കലും നമ്മൾ നൺ വാല്യൂ കണ്ടെത്തുകയില്ല നാം ഒരു വാല്യൂ മാത്രം അടിസ്ഥാനമാക്കി ഒരു സിംഗിൾട്ടൻ ഒരു ശൂന്യമായ ലിസ്റ്റ് എന്നിവ വേർതിരിക്കുന്നു രണ്ടും ഒരു നോഡ് മാത്രം ഉൾക്കൊള്ളുന്നു ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടതിന്റെ കാരണം യഥാർത്ഥത്തിൽ പൈത്തൺ ഒരു ശൂന്യമായ ലിസ്റ്റ് സൃഷ്ടിക്കാൻ അനുവദിക്കാത്തതിനാലാണ് l ഈക്വൽ റ്റു നൺ എന്ന് പറഞ്ഞാൽ അത് ശൂന്യമായ ലിസ്റ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ നൺ എന്നതിന് പൈത്തൺ വാല്യൂ സിസ്റ്റത്തിൽ ഒരു ടൈപ്പ് ഇല്ല എന്നതാണ് പ്രശ്നം നമുക്ക് നൺ ടൈപ്പ് ആണെങ്കിൽ ഈ ലിസ്റ്റ് ടൈപ്പിനായി നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒബ്ജക്റ്റ് ഫംഗ്ഷനുകൾ പ്രയോഗിക്കാൻ കഴിയില്ല ശരിയായ തരത്തിലുള്ള ശൂന്യമായ എന്തെങ്കിലും നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ കുറഞ്ഞത് 1 നോഡ് എങ്കിലും സൃഷ്ടിക്കേണ്ടതുണ്ട് ഈ കാരണത്താൽ നമ്മൾ ഒരു ശൂന്യമായ ലിസ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രാതിനിധ്യം ഉപയോഗിക്കേണ്ടതുണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അടിസ്ഥാന ക്ലാസ് ഇതാണ് ഇത് ഒരു ക്ലാസ് നോഡാണ് ഓരോ നോഡിനുള്ളിലും നമുക്ക് 2 ആട്രിബ്യൂട്ട് മൂല്യമുണ്ട് അടുത്തത് നമ്മൾ പറഞ്ഞതുപോലെ പരിഗണനയിലുള്ള ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നതിന് എല്ലാ ഫംഗ്ഷനിലും സെൽഫ് എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നുവെന്നോർക്കുക നമ്മൾ ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ ഒരു ശൂന്യമായ ലിസ്റ്റ് സൃഷ്ടിക്കാൻ ഈ സ്വാഭാവിക സ്കീം ഉപയോഗിക്കും ഇനിറ്റ് വാല്യൂ ഇത് init val ആയിരിക്കണം പ്രാരംഭ വാല്യൂ സ്വാഭാവികമായി നൺ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് സൃഷ്ടിക്കാൻ ഒരു വാല്യൂ നൽകുന്ന സാഹചര്യത്തിൽ ഒരു പ്രാരംഭ വാല്യൂ ഉപയോഗിച്ച് ലിസ്റ്റ് ഉണ്ടാക്കണം ശൂന്യമായ ലിസ്റ്റ് സംബന്ധിച്ച നമ്മുടെ അനുമാനം നിമിത്തം ലിസ്റ്റ് ശൂന്യമാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പ്രാരംഭ നോഡിലെ വാല്യൂ നൺ ആണോ അല്ലയോ എന്ന് നോക്കുക എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്ന ലിസ്റ്റ് നാം എടുത്തു ആദ്യത്തെ വാല്യൂ കാണുന്നത് സെൽഫ് ഡോട്ട് വാല്യൂ ആയിരിക്കും അത് നൺ ആണോ എന്ന് ചോദിക്കുന്നു അത് നൺ ആണെങ്കിൽ അത് ശൂന്യമാണ് അല്ല എങ്കിൽ അത് ശൂന്യമല്ല ഇതാ ഒരു സാധാരണ കാര്യം ആണ് നമ്മൾ പറയുന്നു L1 ഈക്വൽ റ്റു നോഡ് ഇത് ഒരു ശൂന്യമായ ലിസ്റ്റ് സൃഷ്ടിക്കുന്നു കാരണം ഇതിന് ഒരു മൂല്യവും നൽകിയിട്ടില്ല പ്രാരംഭ വാല്യൂ ഡിഫോൾട്ട് ആയി നൺ ആണ് L2 ഈക്വൽ റ്റു നോഡ് 5 എന്ന് ഞാൻ പറഞ്ഞാൽ അത് 5 എന്ന വാല്യൂ ഉള്ള ഒരു നോഡ് സൃഷ്ടിക്കും ഇത് ഒരു സിംഗിൾട്ടൻ ലിസ്റ്റ് സൃഷ്ടിക്കും അതു നമ്മൾ സാധാരണയായി ഇങ്ങനെയാണ് പൈത്തണിൽ എഴുതുക ഞാൻ L1 ശൂന്യമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം ശരി എന്നാകും ഞാൻ L2 ശൂന്യമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം തെറ്റ് എന്നാകും കാരണം സെൽഫ് ഡോട്ട് വാല്യൂ നൺ ആകില്ല ഇപ്പോൾ ഒരു ലിസ്റ്റ് ലഭിച്ചുകഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് കൈകാര്യം ചെയ്യുക എന്നതാണ് ആദ്യം ലിസ്റ്റിന്റെ അവസാനത്തിൽ ഒരു വാല്യൂ ചേർക്കുക എന്നതാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലിസ്റ്റ് ഇതിനകം ശൂന്യമാണെങ്കിൽ നമുക്ക് മൂല്യങ്ങളില്ലാത്ത ഒരൊറ്റ നോഡ് ഉണ്ട് അതിനെ ഒരു സിംഗിൾട്ടൺ നോഡ് ആക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു വാല്യൂ v ഉള്ള സിംഗിൾട്ടൺ ലിസ്റ്റ് ഇതിൽ നിന്ന് ഇതിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഓർക്കുക ഒരു സിംഗിൾട്ടൺ നോഡിൽ നൺ എന്നതിന് പകരം ഇവിടെ v എന്ന മൂല്യമാകും നമ്മൾ ചെയ്യേണ്ടത് അത്രമാത്രം ആണ് നമ്മൾ ലിസ്റ്റിന്റെ അവസാന ഘടകത്തിലാണെങ്കിൽ ഈ നൺ v എന്ന മൂല്യമാക്കുക ഇപ്പോൾ നമ്മൾ ലിസ്റ്റിന്റെ അവസാന ഘടകത്തിലാണെന്ന് നമുക്കറിയാം കാരണം അടുത്ത വാല്യൂ നൺ ആണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പുതിയ വാല്യൂ സൃഷ്ടിക്കുക എന്നതാണ് നമ്മൾ ലിസ്റ്റിന്റെ അവസാനം വരെ പോകുന്നു തുടർന്ന് നമ്മൾ നൺ എത്തുന്നു ഇപ്പോൾ വാല്യൂ വി ഉപയോഗിച്ച് ഇവിടെ ഒരു പുതിയ ഘടകം സൃഷ്ടിക്കുകയും ഈ ഘടകം ഇതിലേക്ക് പോയിന്റ് ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ നോഡ് വി ഉള്ള ഒരു പുതിയ ഘടകം സൃഷ്ടിക്കാനും അവസാന നോഡിന്റെ അടുത്ത ഫീൽഡ് പുതിയ നോഡിലേക്ക് പോയിന്റ് ചെയ്യുകയും ചെയ്യുന്നു ഇത് അവസാന വാല്യൂ അല്ല എങ്കിൽ ബാക്കി ലിസ്റ്റിനോട് ഇത് അടുത്ത നോഡിൽ തുടങ്ങുന്ന ഒരു പുതിയ ലിസ്റ്റ് ആയി കണക്കാക്കാൻ ആവശ്യപ്പെടുന്നു അടുത്ത ഘടകം എടുത്ത് ആവർത്തിച്ച് v കൂട്ടിച്ചേർക്കുക ഇത് അപ്പെൻഡിന്റെ വളരെ ലളിതമായ റിക്കേഴ്സിവ് നിർവചനം നൽകുന്നു നമ്മൾ അപ്പെൻഡ് എടുക്കുകയും ഈ ലിസ്റ്റിലെക്ക് v കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അത് ശൂന്യമാണെങ്കിൽ നമ്മൾ വാല്യൂ v ആയി സജ്ജമാക്കി അതിനാൽ ഈ മൂല്യമില്ലാത്ത സിംഗിൾ നോഡിനെ v മൂല്യമുള്ള സിംഗിൾ നോഡിലേക്ക് പരിവർത്തനം ചെയ്യുന്നു അല്ലാത്തപക്ഷം നമ്മൾ അവസാന നോഡിലാണെങ്കിൽ സെൽഫ് ഡോട്ട് നെക്സ്റ്റ് എന്നാൽ നൺ ആണ് നമ്മൾ വാല്യൂ വി ഉള്ള ഒരു പുതിയ നോഡ് സൃഷ്ടിക്കുക നമ്മളുടെ അടുത്ത പോയിന്റർ പുതിയ നോഡിലേക്ക് പോയിന്റ് ചെയ്ത് നമ്മൾ വെച്ചു നമ്മൾ പുതിയ നോഡ് സൃഷ്ടിക്കുമ്പോൾ ഓർക്കുക പുതിയ നോഡ് init ഫങ്ഷൻ ആണ് ഉണ്ടാക്കുന്നത് അടുത്ത് നൺ ആയിരിക്കും നമ്മൾ ഇപ്പോൾ ഒരു പുതിയ നോഡ് സൃഷ്ടിക്കും അത് v ഉം നൺ പോലെയും ആണ് നമ്മളുടെ അടുത്ത പോയിന്റർ ഇതിലേക്ക് പോയിന്റ് ചെയ്യുന്നു അവസാന കാര്യം അത് നൺ അല്ലെങ്കിൽ അതിനു ശേഷം മറ്റെന്തെങ്കിലും ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ അടുത്ത ഘടകം സെൽഫ് ഡോട്ട് നെക്സ്റ്റ് എടുക്കും അതനുസരിച്ചു നമ്മൾ വാല്യൂ വി ഉപയോഗിച്ച് അപ്പെൻഡ് ഫങ്ഷൻ ഉപയോഗിക്കും ഇത് റിക്കേഴ്സീവ് കോൾ ആണ് ഇത് പാഴ്സബിൾ ആണെന്ന് ഉറപ്പുവരുത്തുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധാലുവാണ് നമ്മൾ ഇവിടെ ബ്രാക്കറ് ഇട്ടു അടുത്തതായി ഒബ്ജക്റ്റ് സെൽഫ് ഡോട്ട് നെക്സ്റ്റ് എടുത്ത് അപ്പെൻഡ് ചെയ്യുക ഇത് പൈത്തൺ ശരിയായി ചെയ്യും നമ്മൾ യഥാർത്ഥത്തിൽ ബ്രാക്കറ്റ് ഇടേണ്ടതില്ല നമുക്ക് സെൽഫ് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് അപ്പെൻഡ് v എന്ന് മാത്രം എഴുതാം പൈത്തൺ ഇത് സെൽഫ് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് അപ്പെൻഡ് ആയി ശരിയായി ബ്രാക്കറ്റ് ചെയ്യും ഈ ഡോട്ട് വലതുഭാഗത്ത് നിന്ന് എടുക്കുന്നു ഇപ്പോൾ റിക്കേഴ്സിവ് ആയി ലിസ്റ്റിന്റെ അവസാനത്തിലേക്ക് പോകുന്നതിനുപകരം ആവർത്തനപരമായി നമുക്ക് ലിസ്റ്റിന്റെ അവസാനം സ്കാൻ ചെയ്യാനും കഴിയും അടുത്ത വാല്യൂ നൺ വരുന്ന ഒരു നോഡ് എത്തുന്നത് വരെ ഈ പോയിന്ററുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ലൂപ്പ് നമുക്ക് എഴുതാൻ കഴിയും മുമ്പുള്ളതുപോലെ ലിസ്റ്റ് ശൂന്യമാണെങ്കിൽ വാല്യൂ നൺ v ആയി മാറ്റിസ്ഥാപിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അവസാന ഘടകത്തിലെത്തുന്നതു വരെ ലിസ്റ്റ് സ്കാൻ ചെയ്യുകയും മുമ്പത്തെ കേസിലെന്നപോലെ അവസാന ഘടകത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ നോഡ് സൃഷ്ടിക്കുകയും അവസാന എലമെന്റ് അതിലേക്ക് പോയിന്റ് ചെയ്യുകയും ചെയ്യും ഇത് ഒരു ഐട്രേറ്റിവ് അപ്പെൻഡ് നൽകുന്നു അതുകൊണ്ട് നമ്മൾ ഇത് ഐട്രേറ്റിവ് ആണെന്ന് സൂചിപ്പിക്കാൻ appendi എന്ന് എഴുതി നിലവിലെ ലിസ്റ്റ് ശൂന്യമാണെങ്കിൽ ആദ്യ ഭാഗം സമാനമാണ് അതിനുശേഷം നമ്മൾ വാല്യൂ v ആയി സജ്ജമാക്കി നമ്മൾ റിട്ടേൺ ചെയ്തു അല്ലാത്തപക്ഷം നമ്മൾ ഇപ്പോൾ ലിസ്റ്റിൽ താഴേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു നിലവിലെ നോഡിലേക്ക് പോയിന്റുചെയ്യാൻ നമ്മൾ ഒരു താൽക്കാലിക പോയിന്റർ temp സജ്ജമാക്കി നെക്സ്റ്റ് നൺ ആകുന്നിടത്തോളം കാലം നമ്മൾ അടുത്ത മൂല്യത്തിലേക്ക് ടെംപ് മാറ്റുന്നത് തുടരുന്നു നമ്മൾ ഒരു ലൂപ്പ് എഴുതുന്നു വൈൽ ടെംപ് ഡോട്ട് നെക്സ്റ്റ് ഈസ് നോട്ട് നൺ ആണെങ്കിൽ ടെംപ് ഈക്വൽ റ്റു ടെംപ് ഡോട്ട് നെക്സ്റ്റ് ആയിരിക്കും temp ഷിഫ്റ്റ് ചെയ്യുന്നത് തുടരുക ഒടുവിൽ ഈ ലൂപ്പിൽ നിന്നു പുറത്തു വരുമ്പോൾ ഈ അവസരത്തിൽ ടെംപ് ഡോട്ട് നെക്സ്റ്റ് നൺ ആയിരിക്കും ഈ അവസ്ഥയിലാണ് നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തുകടക്കുന്നത് നമ്മൾ ഇവിടെ എത്തി നോഡ് ടെംപ് നിലവിലെ ലിസ്റ്റിലെ അവസാന നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ റിക്കേഴ്സീവ് കേസിൽ ചെയ്ത പോലെ കൃത്യമായി ഒരു വാല്യൂ വി ഉള്ള ഒരു പുതിയ നോഡ് സൃഷ്ടിക്കുന്നു ഈ അവസാന നോഡ് ഈ പുതിയ നോഡിലേക്കു പോയിന്റ് ചെയ്യുന്നു നെക്സ്റ്റ് ഓഫ് ടെംപ് നൺ മാറ്റി പുതിയ നോഡിലേക്ക് നമ്മൾ സജ്ജമാക്കുന്നു നമുക്ക് അപ്പെൻഡ് അല്ല ഇൻസേർട്ട് ആണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യും ഇപ്പോൾ ഇൻസേർട്ട് അപ്പെൻഡിനേക്കാൾ ചേർക്കുന്നത് എളുപ്പമുള്ളതായിരിക്കും എന്ന ധാരണ ഉണ്ടാകാം പക്ഷേ യഥാർത്ഥത്തിൽ ഇൻസേർട്ട് അൽപ്പം ശ്രമകരമാണ് ഇൻസേർട്ട് എന്നാൽ നമ്മൾ അർത്ഥമാക്കുന്നത് തുടക്കത്തിൽ ഒരു വാല്യൂ ഇടാൻ ആഗ്രഹിക്കുന്നു എന്നാണ് V ഉള്ള ഒരു നോഡ് ഇവിടെ സ്ഥാപിച്ച് ഈ പോയിന്റർ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇതാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പ്രശ്നം ശരിക്കും നമ്മൾ ഇവിടെ ഒരു പുതിയ നോഡ് സൃഷ്ടിച്ച ശേഷം നമുക്ക് ഇവിടെ ഈ പോയിന്റ് ഇടാൻ കഴിയില്ല ഈ പോയിന്റ് ഇവിടെയും പുതിയ നോഡ് വി 1 ലേക്ക് പോയിന്റ് ചെയ്യാൻ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ നമ്മൾ എൽ വാല്യൂ വീണ്ടും നൽകുകയാണ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനുള്ളിൽ നമ്മൾ സെൽഫ് വാല്യൂ മാറ്റി കൊടുത്താൽ അത് തികച്ചും വ്യത്യസ്തമായ ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിക്കുന്നു നമ്മൾ പാരാമീറ്ററുകൾ പാസ് ചെയ്യുന്നത് എങ്ങിനെ എന്ന് നോക്കിയപ്പോഴും ഇമ്മ്യൂട്ടബ്ൾ വാല്യൂ പാസ് ചെയ്യുന്നത് എങ്ങിനെ എന്ന് നോക്കിയപ്പോഴും ഇത് കണ്ടിരുന്നു നമ്മൾ ഒരു ഫംഗ്ഷന് ഒരു മ്യൂട്ടബിൾ വാല്യൂ കൈമാറുകയാണെങ്കിൽ ആ കാര്യം നമ്മൾ പുനർവിന്യസിക്കാത്തിടത്തോളം കാലം ഫംഗ്ഷനുള്ളിലെ ഏതെങ്കിലും മ്യൂട്ടേഷൻ ഫംഗ്ഷന് പുറത്ത് പ്രതിഫലിക്കും പക്ഷേ നമ്മൾ ഫംഗ്ഷനുള്ളിലെ ലിസ്റ്റിലെക്കോ ഡിക്ഷ്ണറിയിലേക്കോ പുനർവിന്യസിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പുതിയ പകർപ്പ് ലഭിക്കും അതിനുശേഷം നമ്മൾ വരുത്തുന്ന ഏത് മാറ്റവും ഓഫാണ് അതുപോലെ തന്നെ ഒരു പുതിയ നോഡിലേക്ക് പോയിന്റു ചെയ്യാൻ l അല്ലെങ്കിൽ സെൽഫ് മാറ്റി കൊടുത്താൽ ഫംഗ്ഷനിലേക്ക് കൈമാറിയ പരാമീറ്ററും നമുക്ക് തിരികെ ലഭിക്കുന്ന പാരാമീറ്ററും തമ്മിലുള്ള കണക്ഷൻ നഷ്ടപ്പെടും l ഇതിലേക്ക് പോയിന്റ് ചെയ്യാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം l പോയിന്റുചെയ്യുന്നത് എവിടേക്കാണ് എന്നത് നമുക്ക് മാറ്റാൻ കഴിയില്ല ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടാം നമ്മൾ ഒരു പുതിയ നോഡ് സൃഷ്ടിച്ചു അതിലേക്ക് l പോയിന്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാൻ അനുവാദമില്ല കാരണം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൈത്തൺ പഴയ l ൽ നിന്ന് പുതിയ l നെ വിച്ഛേദിക്കും വളരെ ലളിതമായ ഒരു ട്രിക്ക് ഉണ്ട് നമ്മൾ എന്തു ചെയ്യും നാം നോഡ് ഐഡന്റിറ്റി മാറ്റില്ല അതിൽ അടങ്ങിയിരിക്കുന്നതു മാറ്റും v 1 പഴയ ആദ്യത്തെ നോഡാണെന്നും v ഒരു പുതിയ ആദ്യ നോഡാണെന്നും നമുക്കറിയാം പക്ഷേ നമുക്ക് l പുതിയ ആദ്യത്തെ നോഡിലേക്ക് പോയിന്റ് ചെയ്യാൻ കഴിയില്ല അതിനാൽ നമ്മൾ മൂല്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നത് v 1 നെ v ഉം v യെ v 1 ഉം ആയി മാറ്റിസ്ഥാപിക്കുകയുമാണ് ഇപ്പോൾ മൂല്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു കൂടാതെ സമാനമായ ഒരു കാര്യം ഇവിടെയും നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ത് എവിടേക്കാണ് പോയിന്റുചെയ്യുന്നത് എന്ന് l ഇപ്പോൾ ആദ്യത്തെ നോഡിലേക്കു v ലേക്ക് പോയിന്റ് ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ v 1 ബൈപാസ് ചെയ്തു അത് ഒരു തെറ്റാണ് നമ്മൾ ഇപ്പോൾ ആദ്യത്തെ നോഡ് പുതിയ നോഡിലേക്കും പുതിയ നോഡ് പഴയ രണ്ടാമത്തെ നോഡിലേക്കും പോയിന്റ് ചെയ്യണം ഇത്തരത്തിലുള്ള പ്ലംബിംഗ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒന്ന് ഉറപ്പു വരുത്തി പുതിയ ലിസ്റ്റിൽ v 1 ന് മുമ്പ് v ചേർത്തതായി കാണാം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ v നും v 2 നും ഇടയിൽ ഒരു പുതിയ നോഡ് ചേർത്തു കൂടാതെ നമ്മൾ ലിങ്കുകൾ മാറ്റി പുതിയ നോഡ് ആദ്യത്തെ അല്ല രണ്ടാമത്തെ ആക്കി ദൃശ്യമാക്കി ഇൻസേർട്ട് ചെയ്യാനുള്ള കോഡ് ഇതാണ് പതിവുപോലെ നിങ്ങൾക്ക് ഒരു ശൂന്യമായ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻസെർട്ട് എളുപ്പമാണ് നാം നൺ മാറ്റി വി ആക്കി അങ്ങനെ ഇൻസെർട്ട് അപ്പെൻഡ് എന്നിവ ഒരു ശൂന്യമായ ലിസ്റ്റ് ആണെങ്കിൽ ഒരുപോലെ ആണ് നമ്മൾ ശൂന്യമായ ലിസ്റ്റിൽ നിന്നും വി ലിസ്റ്റിലെക്ക് പോകുന്നു നിങ്ങൾ ഇൻസെർട്ട് ആണോ അപ്പെൻഡ് ആണോ ചെയ്യുന്നത് എന്നതിൽ പ്രസക്തിയില്ല അല്ലാത്തപക്ഷം നമ്മൾ ഈ പുതിയ നോഡ് സൃഷ്ടിക്കുന്നു തുടർന്ന് സെൽഫ് പോയിന്റ് ചെയ്യുന്ന നോഡും അതായത് ലിസ്റ്റിന്റെ ഹെഡ് അതും പുതിയ നോഡും തമ്മിലുള്ള മൂല്യങ്ങളുടെ സ്വാപ്പിംഗ് നമ്മൾ ചെയ്യുന്നു നമ്മൾ മൂല്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നുനമ്മൾ സെൽഫ് ഡോട്ട് വാല്യൂ എന്നത് ന്യൂ നോഡ് ഡോട്ട് വാല്യൂ ആക്കുന്നു അതുപോലെ ന്യൂ നോഡ് ഡോട്ട് വാല്യൂ സെൽഫ് ഡോട്ട് വാല്യൂ ആയി പൈത്തണിന്റെ സൈമൾട്ടെനിയസ് അസൈൻമെന്റ് ഉപയോഗിച്ച് സജ്ജമാക്കുന്നു അപ്രകാരം നാം അടുത്ത നോഡ് ചൂണ്ടിക്കാണിക്കുന്ന സെൽഫ് ഡോട്ട് നെക്സ്റ്റ് എടുത്തു അത് ന്യൂ നോഡിലേക്കു പോയിന്റ് ചെയ്യുന്നു പകരം പുതിയ നോഡ് നമ്മൾ നേരത്തെ പോയിന്റ് ചെയ്ത നോഡിലേക്ക് പോയിന്റ് ചെയ്യണം ന്യൂ നോഡ് ഡോട്ട് നെക്സ്റ്റ് സെൽഫ് ഡോട്ട് നെക്സ്റ്റ് ആണ് ഇങ്ങനെയാണ് നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നത് ഇത് നേരത്തെ കണ്ടതുപോലെ അപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ അൽപ്പം സങ്കീർണ്ണമായത് ആണ് കാരണം തുടക്കത്തിൽ ലിസ്റ്റിലെക്ക് l പോയിന്റു ചെയ്യുന്നത് അല്ലെങ്കിൽ ലിസ്റ്റിലെക്ക് സെൽഫ് പോയിന്റു ചെയ്യുന്നത് കൈകാര്യം ചെയ്യേണ്ടിവരുന്നു നമുക്ക് ഒരു നോഡ് ഇല്ലാതാക്കണമെങ്കിൽ എന്തുചെയ്യും ഒരു നോഡ് ഇല്ലാതാക്കാൻ നമ്മൾ എങ്ങനെ വ്യക്തമാക്കും ശരി നമ്മൾ ഇത് ഒരു മൂല്യത്താൽ വ്യക്തമാക്കുന്നു ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ നോഡ് ഇല്ലാതാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഇപ്പോൾ എങ്ങനെ നമ്മൾ ഇത് ഇല്ലാതാക്കും വീണ്ടും നമ്മൾ ഇൻസെർട്ട് ചെയ്തത് പോലെ റീ പ്ലംബിംഗ് അല്ലെങ്കിൽ റീ കണക്ഷൻ ചെയ്യും നമ്മൾ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന നോഡ് എടുക്കുകയും v 2 ലേക്ക് സൂചിപ്പിക്കുന്ന ലിങ്ക് ബൈപാസ് ആക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ വി 1 മുതൽ ലിങ്ക് എടുത്തു നേരിട്ട് വി 3 ലേക്ക് കൊടുക്കുന്നു അങ്ങനെ പോയിന്റ് ചെയ്താൽ ചുരുക്കത്തിൽ സംഭവിക്കുന്നത് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിന്റെ മുൻപിലുള്ള നോഡിന്റെ പോയിന്റർ ഡിലീറ്റ് ചെയ്യേണ്ട നോഡിന്റെ പുറകിലെ നോഡിന്റെ പോയിന്ററിലേക്കു മാറ്റി സ്ഥാപിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഒബ്ജക്റ്റിനെ മെമ്മറിയിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ല പക്ഷേ ഇത് ലിങ്ക് അറ്റത്ത് നിന്ന് ആക്സസ്സുചെയ്യാനാകില്ല നമ്മൾ ഒരു വാല്യൂ v നൽകുന്നു ഒപ്പം വി യുടെ ആദ്യ പ്രതിനിധ്യം നീക്കംചെയ്യാൻ നമ്മൾ താൽപ്പര്യപ്പെടുന്നു ആദ്യത്തെ വി ക്കായി നമ്മൾ ലിസ്റ്റ് സ്കാൻ ചെയ്യുന്നു ഈ പ്ലംബിംഗ് പ്രക്രിയയിൽ അത് വി 3 ലേക്ക് പോയിന്റുചെയ്യുന്നതിന് നമ്മൾ v 1 ൽ ആയിരിക്കണമെന്ന് ശ്രദ്ധിക്കുക നമ്മൾ അടുത്ത നോഡ് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എളുപ്പമാണ് കാരണം നെക്സ്റ്റ് ഡോട്ട് നെക്സ്റ്റ് എടുത്തു അത് കറന്റ് നെക്സ്റ്റിലേക്ക് നൽകാം നമ്മൾ ഒരു പടി മുന്നോട്ട് നോക്കണം നിങ്ങൾ ഇതിനകം വി 2വിൽ ആണെങ്കിൽ നമ്മൾ വി 1 കഴിഞ്ഞു പോയി നമുക്ക് ഇനി വി 1 ലേക്ക് എളുപ്പത്തിൽ തിരികെ പോകാൻ കഴിയില്ല കാരണം നമ്മുടെ ലിസ്റ്റ് സജ്ജീകരിച്ചതു അത് മുന്നോട്ട് മാത്രം പോകുന്ന രീതിയിൽ ആണ് നമുക്ക് v 1 ലേക്ക് തിരികെ പോയി അത് മാറ്റാൻ കഴിയില്ല നമ്മൾ ചെയ്യുന്നത് അടുത്ത വാല്യൂ നോക്കിയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത് സെൽഫ് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് വാല്യൂ v ആണെങ്കിൽ അതായത് അടുത്ത നോഡ് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ അതിനെ ബെപാസ്സ് ചെയ്യുന്നു കറന്റ് നോഡിന്റെ നെക്സ്റ്റ് അല്ല നെക്സ്റ്റ് നോഡ് പകരം നെക്സ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് ആണ് എന്ന് പറയുന്നു സെൽഫ് ഡോട്ട് നെക്സ്റ്റ് അസൈൻഡ് ടു സെൽഫ് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് നെക്സ്റ്റ് ബെപാസ്സ് നെക്സ്റ്റ് നോഡ് ഇൻസെർട്ട് പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേയൊരു കാര്യം ഡിലീറ്റ് ചെയ്യണ്ടത് ലിസ്റ്റിലെ ആദ്യത്തെ വാല്യൂ ആണ് ലിസ്റ്റിലെ ആദ്യത്തെ വാല്യൂ ഇല്ലാതാക്കാൻ ഇൻസേർട്ട് ചെയ്തപ്പോൾ എടുത്ത സ്വാഭാവിക കാര്യം തന്നെ ചെയ്യുക ലിസ്റ്റിൽ രണ്ടാമത്തെ വാല്യൂ ആണ് l പോയിന്റ് ചെയ്യേണ്ടത് എന്ന് കരുതുക നമുക്ക് l പോയിന്റ് ചെയ്യാൻ കഴിയില്ല കാരണം l പോയിന്റ് ചെയ്യുന്ന നോഡ് റീ അസൈൻ ചെയ്താൽ അത് പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കും അത് നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്ററും തിരികെ ലഭിക്കുന്ന പരാമീറ്ററും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കും നമുക്ക് ഒരു സൂത്രം ചെയ്യാം അടുത്ത നോഡിലെ v 2 വാല്യൂ കോപ്പി ചെയ്യുക എന്നിട്ടു ഈ വാല്യൂ ഇവിടെ നിന്ന് ഇവിടേക്ക് പകർത്തുകയും തുടർന്ന് v 2 ഇല്ലാതാക്കുകയും ചെയ്യുന്നു ആദ്യത്തെ നോഡ് ഇല്ലാതാക്കാൻ നമ്മൾ ആഗ്രഹിച്ചു എന്നാൽ അതിനു നമുക്ക് അനുവാദമില്ല കാരണം എൽ പോയിന്റ് ചെയ്യുന്നത് നമുക്ക് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് പകരം നമ്മൾ രണ്ടാം നോഡിലെ വാല്യൂ വി 2 എടുത്തു അത് കോപ്പി ചെയ്തു എന്നിട്ടു ആദ്യ നോഡ് മൂന്നാമത്തെ നോഡിലേക്കു പോയിന്റ് ചെയ്തു കൊണ്ട് വി 2 ഇല്ലാതാക്കി എന്ന് വരുത്തി തീർത്തു ഡിലീറ്റ് ഫങ്ഷന്റെ ഒരു ഭാഗം ഇതാണ് ഒന്നാമതായി നമ്മൾ v നോക്കുകയാണ് അത് കണ്ടെത്താനായില്ല ഈ കോഡിൽ ക്ഷമിക്കണം അതിനെ x എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് x വാല്യൂ ഇല്ലാതാക്കണം നമ്മൾ പറയുന്നു ലിസ്റ്റ് ശൂന്യമാണ് എങ്കിൽ വ്യക്തമായും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ വാല്യൂസ് ഉള്ള നോഡ് ആണ് ഡിലീറ്റ് ആക്കേണ്ടത് അത് ശൂന്യമാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ സെൽഫ് ഡോട്ട് വാല്യൂ x ആണെങ്കിൽ ആദ്യത്തെ നോഡ് ഇല്ലാതാക്കേണ്ടതാണ് 1 നോഡ് മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മൾ x ൽ നിന്ന് എംപ്റ്റി വരെ പോകുന്നു ഇത് എളുപ്പമാണ് അവിടെ നമുക്ക് അടുത്ത നോഡ് ഇല്ലെങ്കിൽ അതായതു ഒരു സിംഗിൾട്ടൻ ഉണ്ടെങ്കിൽ നമ്മൾ വാല്യൂ നൺ ആയി വക്കുന്നു നമ്മുടെ ജോലി കഴിഞ്ഞു ഇത് എളുപ്പമുള്ള കേസാണ് പക്ഷേ ഇത് ആദ്യത്തെ നോഡല്ലെങ്കിൽഞാൻ അർത്ഥമാക്കുന്നത് ഇത് ആദ്യത്തെ നോഡാണെന്നും ഇത് ലിസ്റ്റിലെ ഒരേയൊരു നോഡ് അല്ലെന്നും ആണ് എങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ചെയ്യുന്നു നമ്മൾ അടുത്ത വാല്യൂ പകർത്തുന്നു നമ്മൾ രണ്ടാമത്തെ നോഡ് ഇല്ലാതാക്കുകയാണെന്ന് വരുത്തി തീർക്കുന്നു രണ്ടാമത്തെ മൂല്യത്തെ ആദ്യ മൂല്യത്തിലേക്ക് നമ്മൾ പകർത്തുകയും അടുത്ത നോഡ് ബൈപാസ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കുകയും ചെയ്യും ഇതാണ് ആ ബൈപാസ് ഇത് ഫംഗ്ഷന്റെ ഭാഗമാണ് ഇതാണ് തന്ത്രപരമായ ഭാഗം ആദ്യ വാല്യൂ നിങ്ങൾ എങ്ങനെ ഇല്ലാതാക്കും എന്നുള്ളത് ഇത് 1 വാല്യൂ മാത്രമാണെങ്കിൽ അത് നൺ ആക്കുക ഇല്ലെങ്കിൽ രണ്ടാമത്തെ നോഡ് ആദ്യ നോഡിലേക്ക് പകർത്തി രണ്ടാമത്തെ നോഡിനെ ബെപാസ്സ് ചെയ്യുക ഇത് അങ്ങനെയല്ലെങ്കിൽ നമ്മൾ ഇല്ലാതാക്കുന്ന ആദ്യത്തെ x കണ്ടെത്തുക നമ്മൾ ആരംഭിക്കുന്നു ഇതുപോലെ ഇത് നമ്മളുടെ ഐട്രേറ്റിവ് അപ്പെൻഡ് പോലെയാണ് നാം സെൽഫിലേക്കു പോയിന്റ് ചെയ്തു തുടങ്ങുന്നു ലിസ്റ്റിന്റെ അവസാനം എത്തുന്നതിനു മുൻപ് x കണ്ടെത്തിയാൽ അത് ബൈപാസ് ചെയ്യുന്നു നാം ലിസ്റ്റിന്റെ അവസാനം എത്തിച്ചേർന്നിട്ടും വാല്യൂ X കണ്ടില്ല എങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല നമ്മൾ മടങ്ങണം ഈ സാഹചര്യത്തിൽ ഇത് ഇവിടെ അപ്പെൻഡ് പോലെ അല്ല ഒരു ലിസ്റ്റിൽ അവസാനം എത്തിയാൽ അവിടെ അപ്പെൻഡ് ചെയ്യും ലിസ്റ്റിന്റെ അവസാനം എത്തിയിട്ടും ഒരു x കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യാനില്ല ഒരു പൂർണത ലഭിക്കാൻ ഫുൾ ഫങ്ഷൻ കാണിച്ചിരിക്കുന്നു ആദ്യ സ്ലൈഡ് നമ്മൾ കണ്ടുആദ്യ നോഡ് വാല്യൂ ഇല്ലാതാക്കാൻ ആയിരുന്നു അത് കൂടാതെ ഈ രണ്ടാം കേസ് നമ്മൾ ലിസ്റ്റിൽ ആദ്യ x കണ്ടെത്തി അത് ഇല്ലാതാക്കുന്നതിനുള്ളതാണ് ഐട്രേറ്റിവ് ആയും റീകേഴ്സീവ് ആയും അപ്പെൻഡ് ചെയ്യുന്നത് പോലെ റീകേഴ്സീവ് ആയി ഡിലീറ്റ് ചെയ്യാൻ കഴിയും നമ്മൾ കൈകാര്യം ചെയ്യുന്നതു ആദ്യ നോഡ് എങ്കിൽ അത് ഒരു പ്രത്യേക വിധത്തിൽ ചെയ്യാം ആദ്യം രണ്ടാം വാല്യൂ ആദ്യത്തേതിലേക്കു നീക്കി നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ബൈപ്പാസ് ചെയ്യുന്നു അല്ലാത്തപക്ഷം നമ്മൾ അടുത്ത നോഡിലേക്ക് പോയിന്റ് ചെയ്ത് അടുത്ത നോഡിനോട് ചോദിക്കുന്നു അടുത്ത നോഡിൽ നിന്ന് ആരംഭിക്കുന്ന ലിസ്റ്റ് സാധാരണയായി ലിസ്റ്റിന്റെ ടെയ്ൽ എന്ന് വിളിക്കപ്പെടുന്നവ അതിൽ നിന്ന് സ്വയം v ഇല്ലാതാക്കാൻ ആവശ്യപ്പെടുന്നു ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരേയൊരു കാര്യം ലിസ്റ്റിന്റെ അവസാനത്തിൽ എത്തി അവസാന നോഡ് ഇല്ലാതാക്കുകയാണെങ്കിൽ ആണ് അങ്ങിനെ വന്നാൽ ഇല്ലാതാക്കേണ്ട v വാല്യൂ ഇവിടെയുണ്ട് നമ്മൾ ഇവിടെ വന്ന് അത് ഇല്ലാതാക്കുന്നു ഇത് നമ്മൾ അവസാനിപ്പിക്കുന്നത് ഒരു നൺ മൂല്യമെത്തുമ്പോൾ ആണ് കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇല്ലാതാക്കുമ്പോൾ അത് നമ്മൾ ഒരു സിംഗിൾട്ടൺ എലെമെന്റ് v എടുത്ത് ആ ഒരു സിംഗിൾട്ടണിൽ നിന്ന് v ഇല്ലാതാക്കി ഒരു നൺ സൃഷ്ടിക്കുന്നു ഇതാണ് അടിസ്ഥാന കേസ് റിക്കേഴ്സിവ് ആയി ഡിലീറ്റ് ചെയ്താൽ അവസാന നോഡിൽ നിന്നും ഡിലീറ്റ് ചെയ്യുമ്പോൾ വാല്യൂ വി ഉള്ള ഒരു സിംഗിൾട്ടൻ ലിസ്റ്റിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്ന പോലെയാണ് അവസാനം ഒരു നൺ വാല്യൂ സൃഷ്ടിക്കാൻ അനുവാദമില്ല അടുത്ത കാര്യം ഉണ്ടാക്കുമ്പോൾനമുക്ക് പരിശോധിക്കാം അടുത്ത വാല്യൂ ഇല്ലാതാക്കിയാൽ അത് വാല്യൂ നൺ ആകും ഇനി നമ്മൾ ലിസ്റ്റിൽ നിന്ന് ആ ഇനം നീക്കം ചെയ്യണം ഇത് ഒരു തന്ത്രപരമായ കാര്യമാണ് നമ്മൾ ഒരു റിക്കേഴ്സിവ് ഡിലീറ്റ് നടത്തുമ്പോൾ നമ്മൾ ഇല്ലാതാക്കിയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഇത് മുൻപത്തെ ഭാഗമാണ് ഇത് റിക്കേഴ്സീവ് ഭാഗം ആണ് ഇത് തികച്ചും ലളിതമാണ് അങ്ങനെ ആദ്യ ഭാഗം നമുക്ക് ഒരു ലിസ്റ്റിൽ നിന്ന് ആദ്യ ഘടകം ഇല്ലാതാക്കുമ്പോൾ ചെയ്യേണ്ട ഭാഗമാണ് റിക്കേഴ്സീവ് ഭാഗം നോക്കിയാൽ ഇഫ് സെൽഫ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ റ്റു നൺ എങ്കിൽ നമ്മൾ റിക്കേഴ്സീവ് ഡിലീറ്റ് ചെയ്യുന്നു ഇതാണ് ഡിലീറ്റ് കോൾ ഇപ്പോൾ ഡിലീറ്റ് പൂർത്തിയായ ശേഷം അടുത്ത വാല്യൂ യഥാർത്ഥത്തിൽ നൺ ആണോ എന്ന് പരിശോധിക്കുന്നു നമ്മൾ യഥാർത്ഥത്തിൽ അവസാന നോഡ് എത്തി ആ നോഡ് ഡിലീറ്റ് ചെയ്തോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് നീക്കും അത് ഇങ്ങനെ എഴുതാം സെൽഫ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ റ്റു സെൽഫ് ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് നെക്സ്റ്റ് അല്ലെങ്കില് നമ്മൾ വെറും സെൽഫ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ റ്റു നൺ എന്ന് ലളിതമായി എഴുതാം കാരണം അത് അവസാന നോഡിൽ മാത്രമാണ് സംഭവിക്കുക നിങ്ങൾ ഈ നോഡിനെ അവസാന നോഡാക്കി മാറ്റുന്നു നെക്സ്റ്റ് നോഡ് നൺ ആണ് എങ്കിൽ അടുത്ത നോഡും നൺ ആണ് ഇതിനും അതെ ഫലം തന്നെയാണ് സെൽഫ് ഡോട്ട് നെക്സ്റ്റ്നൺ ആയിരിക്കണം നമുക്ക് നേരിട്ട് സെൽഫ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ റ്റു നൺ എന്ന് നൽകാം ഇത് അടിസ്ഥാനപരമായി ഈ നോഡിനെ അവസാന നോഡാക്കും റിക്കേഴ്സീവ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക ലിസ്റ്റിൽ അവസാനം എത്തുമ്പോൾ നമ്മൾ ഈ ലിസ്റ്റ് ഇല്ലാതാക്കി എങ്കിൽ ഇത് നൺ ആകും നമ്മൾ ഇവിടെ ലിസ്റ്റ് അവസാനിപ്പിക്കുകയും ഈ നോഡ് നീക്കം ചെയ്യുകയും വേണം അവസാനമായി ഒരു ലിസ്റ്റ് പ്രിന്റുചെയ്യുന്നതിന് ഒരു ഫംഗ്ഷൻ എഴുതാം അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും നമ്മൾ ഒരു ലിസ്റ്റ് പ്രിന്റുചെയ്യും ഒരു പൈത്തൺ ലിസ്റ്റ് നിർമ്മിച്ച് ആ പൈത്തൺ ലിസ്റ്റിൽ str ഉപയോഗിച്ച് നമ്മളുടെ ലിസ്റ്റിലെ മൂല്യങ്ങളിൽ നിന്ന് ഒരു പൈത്തൺ ലിസ്റ്റ് സൃഷ്ടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ലിസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നു ശൂന്യമായ ലിസ്റ്റ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നു നമ്മളുടെ ലിസ്റ്റ് അതിൽ നോഡ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ തിരികെ ശൂന്യമായ ലിസ്റ്റിലെ സ്ട്രിംഗ് വാല്യൂ നൽകുന്നു അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റ് നോക്കി അപ്പെൻഡ് ഉപയോഗിച്ച് ഓരോ വാല്യൂ ചേർക്കുന്നു അതുകൊണ്ട് ഓരോ നോഡ് സംഭരിച്ചിരിക്കുന്ന ഓരോ വാല്യൂ കൂട്ടിച്ചേർത്ത് പൈഥൺ ലിസ്റ്റുണ്ടാക്കുന്നു ഈ പ്രക്രിയയിൽ ഒടുവിൽ ആ ലിസ്റ്റിന്റെ സ്ട്രിംഗ് വാല്യൂ എന്തു തന്നെയായാലും റിട്ടേൺ ചെയ്യുന്നു നമുക്ക് ചില പൈത്തൺ കോഡ് നോക്കാം ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം മുൻപത്തെ സ്ലൈഡുകളിൽ നമ്മൾ ചെയ്തതിനെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു കോഡ് ഇവിടെയുണ്ട് നാം അപ്പെൻഡ്ഡിലീറ്റ് എന്നിവക്കായി റിക്കേഴ്സീവ് രീതി ഉപയോഗിച്ചു നമ്മൾ പ്രാരംഭ വാല്യൂ ഡിഫോൾട്ട് ആയി നൺ അല്ലെങ്കിൽ വി ആർഗ്യുമെന്റ് ആയി ഇനിഷ്യലൈസേഷൻ സജ്ജീകരിച്ചു ശൂന്യമാണോ എന്നറിയാൻ സെൽഫ് ഡോട്ട് വാല്യൂ നൺ ആണോ എന്ന് നോക്കി ഇപ്പോൾ ഈ സ്ലൈഡിൽ ചുരുക്കി ആണ് എഴുതിയത്റിട്ടേൺ സെൽഫ് ഡോട്ട് വാല്യൂ ഈക്വൽ റ്റു ഈക്വൽ റ്റു നൺ എന്ന് എന്നാൽ ഇവിടെ അത് if സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് അത് വിപുലീകരിച്ചു ഇപ്പോൾ ഇതാണ് അപ്പെൻഡ് ഫംഗ്ഷൻ അപ്പെൻഡ് നിലവിലെ നോഡ് ശൂന്യമാണോയെന്ന് പരിശോധിച്ച് അത് ഇവിടെ ഇടുന്നു അല്ലെങ്കിൽ അത് ഒരു പുതിയ നോഡ് സൃഷ്ടിക്കുന്നു നമ്മൾ അവസാന നോഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു പുതിയ നോഡ് സൃഷ്ടിക്കുകയും അവസാന നോഡ് പുതിയ നോഡിലേക്ക് പോയിന്റ് ചെയ്യുകയും ചെയ്യുന്നു അല്ലാത്തപക്ഷം റിക്കേഴ്സീവ് ആയി കൂട്ടിച്ചേർക്കുന്നു ഇപ്പോൾ ഇവിടെ ഈ ഇൻസേർട്ട് ഫങ്ഷൻ ഉണ്ട് ഈ ഇൻസെർട്ട് ഫങ്ഷൻ വീണ്ടും ശൂന്യമാണെങ്കിൽ അത് ഒരു സിംഗിൾട്ടൺ ലിസ്റ്റ് സൃഷ്ടിക്കുന്നു അല്ലാത്തപക്ഷം അത് ഒരു പുതിയ നോഡ് സൃഷ്ടിക്കുകയും ആദ്യത്തെ നോഡും പുതിയ നോഡും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇവിടെ ഈ കാര്യം ഇവിടെയാണ് ഇത് ഉണ്ടാക്കുന്നത് പോയിന്റേഴ്സ് സ്വാപ്പ് ചെയ്യുന്നത് അങ്ങനെ സെൽഫ് എന്തു പോയിന്റ് ചെയ്യുന്നു എന്നത് മാറുന്നില്ല മറിച്ച് പുതിയ നോഡ് ആദ്യ നോഡ് എന്നിവ പുനഃക്രമീകരിക്കുന്നു പുതിയ നോഡ് രണ്ടാമത്തെ നോഡ് ആയി മാറുന്നു ഇപ്പോൾ നമ്മൾ ചേർത്ത വാല്യൂ ആദ്യത്തെ നോഡിന് നൽകുന്നു അവസാനമായി നമുക്ക് റിക്കേഴ്സീവ് ഡിലീറ്റ് നോക്കാം വീണ്ടും റിക്കേഴ്സീവ് ഡിലീറ്റ് പറയുന്നു ലിസ്റ്റ് ശൂന്യമാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ ഇല്ല ആദ്യത്തെ വാല്യൂ ഇല്ലാതാക്കാൻ ആണെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ യഥാർത്ഥത്തിൽ രണ്ടാം വാല്യൂ ഇല്ലാതാക്കാൻ അത് ആദ്യ നോഡിലേക്കു കോപ്പി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെയല്ലെങ്കിൽ നമ്മൾ റിക്കേഴ്സീവ് ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ലിസ്റ്റിന്റെ അവസാനം ഉള്ള ആകസ്മികമായി സൃഷ്ടിച്ച വ്യാജമായ ശൂന്യമായ നോഡ് ഡിലീറ്റ് ചെയ്യുക ഇവിടെയുള്ള ഈ 2 വരികളും നമ്മൾ ഒരു ലിസ്റ്റിന്റെ അവസാനത്തിൽ ശൂന്യമായ നോഡ് ഇടുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു ഒടുവിൽ നമ്മുടെഈ STR ഫങ്ഷൻ നമ്മൾ നൽകിയ മൂല്യങ്ങൾ ഉപയോഗിച്ച് ഒരു പൈത്തൺ ലിസ്റ്റ് സൃഷ്ടിക്കുന്നു ഒടുവിൽ തിരികെ ആ ലിസ്റ്റിന്റെ സ്ട്രിംഗ് പ്രാതിനിധ്യം നൽകുന്നു നമ്മൾ ഇപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്താണ് റൺ ചെയ്യൂന്നതെങ്കിൽ ഉദാഹരണത്തിന് l എന്നത് വാല്യൂ 0 ഉള്ള ഒരു ലിസ്റ്റാണ് പ്രിന്റ് l എന്ന് പറഞ്ഞാൽ ഈ 0 ലഭിക്കുമെന്നും നമുക്ക് പറയാം ഉദാഹരണത്തിന് ഇത് ഒരു ലൂപ്പിൽ ഇടുക i 1 മുതൽ 11 വരെ എങ്കിൽ l ഡോട്ട് അപ്പെൻഡ് i ചെയ്യുക എന്നിട്ട് ഈ ഘട്ടത്തിൽ l പ്രിന്റുചെയ്യുകയാണെങ്കിൽ മുമ്പത്തെപ്പോലെ 0 മുതൽ 10 വരെ ലഭിക്കും ഇപ്പോൾ നമ്മൾ l ഡോട്ട് ഡിലീറ്റ് 4 എന്ന് പറയുന്നു നമ്മൾ l പ്രിന്റ് ചെയ്താൽ 4 ൽ തുടങ്ങി ലഭിക്കുന്നു നമ്മൾ എൽ ഡോട്ട് ഇൻസേർട്ട് 12 നൽകി പ്രിന്റ് എൽ ചെയ്താൽ പിന്നെ 12 ഇൽ ആരംഭിക്കും നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഈ ശൂന്യമായ ബ്രാക്കറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക ഇതാണ് റിട്ടേൺ വാല്യൂ നമ്മൾ ഈ റിട്ടേൺ എഴുതിയപ്പോൾ ശൂന്യമായ ആർഗ്യുമെന്റ് ആണ് നമ്മൾ എഴുതിയത് എന്നിട്ട് നമുക്ക് ഈ ശൂന്യമായ ട്യൂപ്പിൾ ലഭിക്കുന്നു നമുക്ക് ഒന്നുമില്ലാതെ ഒരു റിട്ടേൺ എഴുതാൻ കഴിയും തുടർന്ന് ഇത് ഈ രസകരമായ റിട്ടേൺ വാല്യൂ പ്രദർശിപ്പിക്കില്ല എന്നാൽ യഥാർത്ഥത്തിൽ പ്രധാനം നമ്മളുടെ ലിസ്റ്റിന്റെ ഇന്റേണൽ പ്രാതിനിധ്യം ആണ് നമ്മൾ എഴുതിയ ഫംഗ്ഷനുകൾ അനുസരിച്ചു അത് ശരിയായി മാറുന്നു എന്നതാണ്